ഈ സെഷനിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ MCDC ടെസ്റ്റിങ് പരിശോധിക്കും ഇതുവരെ ഞങ്ങൾ വൈറ്റ് ബോക്സ് പരിശോധനയും വ്യത്യസ്ത തരം കവറേജ് അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റിങ് രീതികളും നോക്കി അതിനാൽ നമുക്ക് വൈറ്റ് ബോക്സ് ടെസ്റ്റിങ് നോക്കാം അവസാന സെഷനിൽ ഞങ്ങൾ കണ്ടീഷൻ ടെസ്റ്റിംങ് നോക്കുകയായിരുന്നു ഒരു ലളിതമായ കണ്ടീഷൻ ടെസ്റ്റിംഗ് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഓരോ ആറ്റോമിക് അവസ്ഥക്കും ട്രൂ ഫാൾസ് മൂല്യങ്ങൾ ഉള്ളതാണ് അതിനാൽ നിരവധി തരത്തിലുള്ള കണ്ടീഷൻ ടെസ്റ്റിംഗുകൾ ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടു ഒരെണ്ണത്തെ ഏറ്റവും ലളിതമായ ടെസ്റ്റിംഗായ ബേസിക് കണ്ടീഷൻ ടെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു ഇവിടെ ഇതുപോലുള്ള ഒരു ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്ഇൽ നിരവധി ആറ്റോമിക് അവസ്ഥകൾ അടങ്ങിയിരിക്കുന്നു ഉദാഹരണത്തിന് a 10 ൽ കൂടുതൽ b 50 ൽ താഴെ തുടങ്ങിയവയും ഈ ടെസ്റ്റിങ്ങും ബേസിക് കണ്ടിഷൻ ടെസ്റ്റിങ് ടെസ്റ്റ് കേസസ് ആവശ്യമായി വരുന്ന ഈ കേസുകൾ ആറ്റോമിക് എക്സ്പ്രഷനുകൾ ട്രൂ ആയും ഫാൾസ് ആയും വ്യക്തിഗതമായി വിലയിരുത്തുന്നു ഉദാഹരണത്തിന് നമുക്ക് a 15 ന് തുല്യവും b 30 ന് തുല്യവുമാണെന്നു നമുക്ക് പറയാം അതിനാൽ a 15 ന് തുല്യമാണ് എന്നത് ആദ്യത്തെ ആറ്റോമിക് അവസ്ഥ ട്രൂ സജ്ജമാക്കും രണ്ടാമത്തേത് 30 50 ൽ താഴെയുള്ളതും ശരിയാകും അതിനാൽ ഇത് ശരിയാകും രണ്ടാമത്തേത് a 5 നേക്കാൾ വലുതാണ് അതിനാൽ ഇത് തെറ്റാണ് b 60 50 ന് കുറവ് തെറ്റാണ് അതിനാൽ ഇത് ബേസിക് കണ്ടിഷൻ കവറേജ് നേടുന്നുണ്ടോ കാരണം രണ്ട് ടെസ്റ്റ് കേസുകളിലും a ശരിയും തെറ്റും എടുക്കുന്നു ക്ഷമിക്കണം ആദ്യ എക്സ്പ്രെഷൻ മൂല്യം ശരിയും തെറ്റും എടുക്കുന്നു രണ്ടാമത്തെ ടെസ്റ്റ് കേസിൽ രണ്ട് ടെസ്റ്റ് കേസുകളുള്ള രണ്ടാമത്തെ എക്സ്പ്രഷനും ശരിയും തെറ്റും മൂല്യങ്ങൾ എടുക്കുന്നു അതിനാൽ ഞങ്ങൾ ബേസിക് കണ്ടിഷൻ കവറേജ് നേടുന്നു ഞങ്ങൾ ഡിസിഷൻ കവറേജും നേടുന്നുണ്ടോ അതെ ഈ രണ്ട് ടെസ്റ്റ് കേസുകളിലൂടെയും ഞങ്ങൾ ഡിസിഷൻ കവറേജ് നേടുന്നു കാരണം ആദ്യ ടെസ്റ്റ് കേസ് ഈ തീരുമാനം ശരിയാണെന്ന് വിലയിരുത്തുകയും രണ്ടാമത്തെ ടെസ്റ്റ് കേസ് ഇത് തെറ്റായി വിലയിരുത്തുകയും ചെയ്യും ഇവ രണ്ടും ബേസിക് കണ്ടിഷൻ കവറേജും ഡിസിഷൻ കവറേജും കൈവരിക്കും ബേസിക് കണ്ടിഷൻ കവറേജ് എല്ലായ്പ്പോഴും ഡിസിഷൻ കവറേജ് നേടാനിടയില്ല ഉദാഹരണത്തിന് a ആദ്യത്തെ ടെസ്റ്റ് കേസിനേക്കാൾ വലുത് 15 ഉം 60 ഉം രണ്ടാമത്തെ ടെസ്റ്റ് കേസ് 5 ഉം 30 ഉം ആണെങ്കിൽ അതിനാൽ എനിക്ക് രണ്ട് ടെസ്റ്റ് കേസുകൾ അനുവദിക്കുക ഓൾട്ടർനേറ്റ് ടെസ്റ്റ് കേസുകൾ 15 ഉം 60 ഉം a 15 ഉം b 60 ഉം രണ്ടാമത്തെ ടെസ്റ്റ് കേസ് a 5 ഉം b 30 ഉം ആണ് ഈ സാഹചര്യത്തിൽ രണ്ട് ടെസ്റ്റ് കേസുകളും തെറ്റായി വിലയിരുത്താനുള്ള തീരുമാനം എടുക്കും അതിനാൽ പൂർണ്ണമായ ബ്രാഞ്ച് എക്സ്പ്രഷന് ശരിയും തെറ്റായ മൂല്യവും ലഭിക്കാത്തതിനാൽ ഡിസിഷൻ കവറേജ് നേടാനാവില്ല ബേസിക് കണ്ടിഷൻ കവറേജ് ഡിസിഷൻ കവറേജ് ഉറപ്പാക്കുന്നില്ല അതിനാൽ ഉപസംബന്ധ ബന്ധത്തെക്കുറിച്ച് നമുക്ക് എന്ത് പറയാൻ കഴിയും ബേസിക് കണ്ടിഷൻ കവറേജ് ഡിസിഷൻ കവറേജ് ഉപയോഗിക്കുമോ ഉത്തരം ഇല്ല കാരണം ബേസിക് കണ്ടിഷൻ കവറേജ് ഡിസിഷൻ കവറേജ് ഉറപ്പാക്കേണ്ടതില്ല അതിനാൽ ഡിസിഷൻ ടെസ്റ്റിങ് ഒരു ദുർബലമായ ടെസ്റ്റിങ് മാനദണ്ഡമാണെന്നും നിരവധി തരം കണ്ടിഷൻ ടെസ്റ്റിങ്ങുകളുണ്ടെന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട് അതിനാൽ ഞങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ ഡിസിഷൻ ടെസ്റ്റിങ് ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾക്ക് മുഴുവൻ കണ്ടീഷണൽ എക്സ്പ്രെഷൻ ആണ് ഉള്ളത് ടെസ്റ്റ് കേസുകൾ അവയെ ശരിയും തെറ്റും വിലയിരുത്തുന്നു ഞങ്ങൾ വളരെ സമഗ്രമായ ടെസ്റ്റിങ് നടത്തുന്നില്ല കൂടുതൽ സമഗ്രമായ ടെസ്റ്റിങ് നേടുന്നതിന് ഞങ്ങൾ കണ്ടീഷൻ ടെസ്റ്റിംഗ് നടത്തേണ്ടതുണ്ട് കൂടാതെ കണ്ടിഷൻ ടെസ്റ്റിങ് പല തരത്തിലാണ് ഞങ്ങൾ ബേസിക് കണ്ടിഷൻ കവറേജ് നോക്കി ബേസിക് കണ്ടിഷൻ കവറേജിൽ ഒരു കണ്ടീഷണൽ എക്സ്പ്രെഷനിലെ ആറ്റോമിക് അവസ്ഥകൾ ശരിയും തെറ്റായ മൂല്യങ്ങളും കൈവരിക്കുന്നു കണ്ടീഷണൽ എക്സ്പ്രെഷനിലെ എല്ലാ ആറ്റോമിക് അവസ്ഥകളും ടെസ്റ്റ് കേസുകൾ നടപ്പിലാക്കുന്നതിലൂടെ ശരിയും തെറ്റായ മൂല്യങ്ങളും കണക്കാക്കുന്നു എന്നാൽ മറ്റ് കണ്ടീഷണൽ ടെസ്റ്റിങ് രീതികളുണ്ട് അത് നമുക്ക് നോക്കാം കൂടാതെ ബേസിക് കണ്ടിഷൻ ടെസ്റ്റിംഗ് ഡിസിഷൻ ടെസ്റ്റിങ്നേക്കാൾ ശക്തമായ ഒരു ടെസ്റ്റിംഗ് അല്ല ബേസിക് കണ്ടിഷൻ ടെസ്റ്റിങ് ഡിസിഷൻ ടെസ്റ്റിങ് ഉറപ്പാക്കുന്നില്ല ഇപ്പോൾ ഡിസിഷൻ കവറേജോടുകൂടിയ ബേസിക് കണ്ടിഷൻ എന്ന് വിളിക്കുന്ന അടുത്ത കണ്ടിഷൻ അടിസ്ഥാനമാക്കിയുള്ള ടെസ്റ്റിങ് നോക്കാം അതിനാൽ ഡിസിഷന്റ്റെ കവറേജ് ടെസ്റ്റിങ് നു ഒപ്പം ബേസിക് കണ്ടിഷൻ ഉള്ള പ്രധാന ആശയം ഇത് ബേസിക് കണ്ടിഷൻ ടെസ്റ്റിങ് ഉറപ്പാക്കുന്നുവെന്നും ഡിസിഷൻ ടെസ്റ്റിങ് ഡിസിഷൻ കവറേജ് ഉറപ്പാക്കുന്നതിന് ടെസ്റ്റ് കേസുകളുണ്ടെന്നും ആണ് ഇപ്പോൾ നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം കൂടാതെ ടെസ്റ്റ് കേസുകൾ ആറ്റോമിക് കണ്ടീഷൻ മൂല്യനിർണ്ണയം ശരിയും തെറ്റും ആണെന്ന് ഉറപ്പാക്കുന്നുവെന്ന് മാത്രമല്ല കണ്ടീഷൻ ഡിസിഷൻ കവറേജ് ഞങ്ങൾ ഇതിനകം കണ്ടു അതിനാൽ എല്ലാ ആറ്റോമിക് കണ്ടിഷനുകളും ടെസ്റ്റ് കേസ് എക്സിക്യൂഷനുകളിൽ ചിലപ്പോൾ ശരിയും തെറ്റും വിലയിരുത്തുന്നു കൂടാതെ പൂർണ്ണമായ ഡിസിഷൻ പൂർണ്ണമായ എക്സ്പ്രെഷനും ടെസ്റ്റ് കേസ് എക്സിക്യൂഷൻ സമയത്ത് ശരിയും തെറ്റും വിലയിരുത്തുന്നു ഇപ്പോൾ ഈ ഉദാഹരണം എടുക്കാം a 50 ൽ കൂടുതൽ അല്ലെങ്കിൽ b 30 ൽ താഴെ ഇപ്പോൾ നമുക്ക് a 70 ഉം b 50 ഉം a 30 b 20 ഉം ആണെങ്കിൽ അത് ബേസിക് കണ്ടീഷൻ കവറേജ് നേടുന്നു കാരണം ആദ്യത്തേതിൽ ശരിയാണെന്നും ഇത് തെറ്റാണ് എന്നും രണ്ടാമത്തേതിൽ ഇത് തെറ്റാണ് ഇത് ശരിയാണ് അതിനാൽ ആദ്യത്തെ ആറ്റോമിക് കണ്ടിഷൻ ആദ്യ ടെസ്റ്റ് കേസിൽ ട്രൂ മൂല്യവും രണ്ടാമത്തെ ടെസ്റ്റ് കേസിൽ തെറ്റായ മൂല്യവും എടുക്കുന്നു ഇവിടെ രണ്ടാമത്തെ കണ്ടീഷണൽ എക്സ്പ്രെഷൻ ആദ്യ ടെസ്റ്റ് കേസിൽ തെറ്റായ മൂല്യവും രണ്ടാമത്തെ ടെസ്റ്റ് കേസിൽ ട്രൂ മൂല്യവും എടുക്കുന്നു ഇവ രണ്ടിലും ഇത് ശരിയാണെന്ന് വിലയിരുത്തുന്നു ഈ രണ്ട് എക്സ്പ്രെഷൻ കേസുകളും ബ്രാഞ്ച് ഫലത്തെ ശരിയാണെന്ന് നിർണ്ണയിക്കുന്നു ഡിസിഷൻ രണ്ട് ടെസ്റ്റ് കേസുകൾക്കും ശരിയാണെന്ന് വിലയിരുത്തുന്നു അതിനാൽ ഡിസിഷൻ കവറേജ് നേടുന്നതിന് ഞങ്ങൾ മറ്റൊരു ടെസ്റ്റ് കേസ് ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതായത് a 20 ആണ് ഞങ്ങൾ അതിനെ ഫാൾസ് ആയി സജ്ജമാക്കുന്നു b 50 ആണ് അതിനാൽ ഫാൾസ് ഫാൾസ് ആണ് ഇത് ഫാൾസ് ആയി മാറുകയും ഇവ രണ്ടും ട്രൂ ആണെന്ന് സജ്ജമാക്കുകയും ചെയ്യുന്നു അതിനാൽ ഡിസിഷൻ കവറേജ് കൈവരിക്കുന്നു കണ്ടീഷൻ ഡിസിഷൻ കവറേജിനായി ടെസ്റ്റ് കേസുകൾ കണ്ടീഷൻ കവറേജ് നേടുന്നതിന് ഞങ്ങൾ ഓഗ്മെന്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഒന്നിലധികം കണ്ടീഷൻ കവറേജായ മറ്റൊരു കണ്ടീഷൻ ടെസ്റ്റിംഗ് നോക്കാം ഈ ടെസ്റ്റിൻഗിൽ എല്ലാ ആറ്റോമിക് കണ്ടിഷനും ശരിയും തെറ്റായ മൂല്യങ്ങളും അനുമാനിക്കുന്നു മാത്രമല്ല സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും ഈ ടെസ്റ്റ് കേസുകളാൽ സാധ്യമായ എല്ലാ കോമ്പിനേഷനുകളും അനുമാനിക്കുന്നു അതിനാൽ കണ്ടിഷനൽ എക്സ്പ്രെഷനിൽ രണ്ട് ആറ്റോമിക് കണ്ടീഷനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാല് ടെസ്റ്റിങ് ആവശ്യമാണ് ഇത് ശരിയും ശരിയും ശരിയും തെറ്റും തെറ്റായതും സത്യവും തെറ്റായതും തെറ്റായതുമായ കേസുകൾ നമുക്ക് മൂന്ന് ആറ്റോമിക് കണ്ടിഷനുകൾ ഉണ്ടെങ്കിൽ നമുക്ക് 8 23 ആവശ്യമാണ് അത് 8 ടെസ്റ്റ് കേസുകൾ ശരി ശരി ശരി ശരി ശരി തെറ്റ് തുടങ്ങിയവ ഇപ്പോൾ ഈ ബ്രാഞ്ച് എക്സ്പ്രഷനായി ഒന്നിലധികം കണ്ടീഷൻ കവറേജ് നേടുന്ന ഒരു ടെസ്റ്റ് സ്യൂട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ഇഫ് സ്റ്റേറ്റ്മെൻറ് ഇൽ ഒന്നിലധികം കണ്ടീഷൻ കവറേജ് നേടുന്ന ടെസ്റ്റ് കേസ് എന്തായിരിക്കും അതിനാൽ നമുക്ക് ആവശ്യമാണ് a 30 ആണ് b 20 ആണ് അതിനാൽ ഫാൾസും ട്രൂ ഉം ഉണ്ട് a 30 ആണ് b 40 ആണ് അതിനാൽ ഫാൾസ്ഉം ഫാൾസ്ഉം പിന്നീട് ട്രൂവും ഫാൾസ്ഉം ട്രൂവും ട്രൂവും ആണ് അതിനാൽ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ് ഇൽ ഇതിനായി ഒന്നിലധികം കണ്ടീഷൻ കവറേജ് നേടുന്നതിന് ഞങ്ങൾക്ക് നാല് ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒന്നിലധികം കണ്ടീഷൻ കവറേജ് എല്ലാത്തിലും ശക്തമാണ് ഒന്നിലധികം കണ്ടീഷൻ കവറേജ് കണ്ടീഷൻ കവറേജും ഡിസിഷൻ കവറേജും കണ്ടീഷൻ ഡിസിഷൻ കവറേജും ഉറപ്പാക്കുന്നു അതിനാൽ അതാണ് ഏറ്റവും ശക്തമായ ടെസ്റ്റിങ് എന്നാൽ ഈ കണ്ടിഷൻ ടെസ്റ്റിങ് രീതികളുടെ പോരായ്മകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ പ്രശ്നം ഞങ്ങൾ കണ്ടീഷൻ എക്സ്പ്രഷൻ മൂല്യനിർണ്ണയത്തിന്റെ ലളിതമായ മാർഗ്ഗമാണ് നോക്കിയത് കംപൈലർ അത് വിലയിരുത്തുന്നില്ല അത് കണ്ടിഷനുകളുടെ ഷോർട്ട് സർക്യൂട്ട് വിലയിരുത്തൽ എന്നറിയപ്പെടുന്നതിലൂടെ വിലയിരുത്തുന്നു ചില വ്യവസ്ഥകളുടെ ഫലം മറ്റ് വ്യവസ്ഥകളെ വിലയിരുത്തുന്നത് അനാവശ്യമായി മാറ്റുന്നിടത്തോളം കാലം എല്ലാ വ്യവസ്ഥകളും വിലയിരുത്തപ്പെടുന്നില്ല അതിനാൽ മറ്റ് വ്യവസ്ഥകൾക്ക് സാധ്യമായ വിവിധ മൂല്യങ്ങൾ നൽകുന്നത് ശരിക്കും പ്രശ്നമല്ല ഷോർട്ട് സർക്യൂട്ട് മൂല്യനിർണ്ണയത്തിന്റെ ഒരു ഉദാഹരണം ഞങ്ങൾ നോക്കാം എന്തുകൊണ്ടാണ് ഒന്നിലധികം കണ്ടീഷൻ കവറേജും കണ്ടീഷൻ ഡിസിഷൻ കവറേജും മുതലായവ ഞങ്ങൾ നോക്കിയ രീതി വളരെ ലളിതമാണ് കംപൈലർ അതിനെ ശരിക്കും വിലയിരുത്തുന്നില്ല അതിനാൽ ആവശ്യമായ ടെസ്റ്റ് കേസുകളുടെ എണ്ണം കുറവായിരിക്കും ഞങ്ങളുടെ ചില അനുമാനങ്ങൾ യഥാർത്ഥത്തിൽ വളരെ ലളിതമായിരുന്നു കംപൈലർ അത്തരത്തിലുള്ള വിലയിരുത്തൽ നടത്തുന്നില്ല രണ്ടാമത്തെ പ്രശ്നം വേരിയബിളുകൾക്കിടയിലുള്ള ഡിപെൻഡൻസി ആണ് ഉദാഹരണത്തിന് നമ്മൾ ഒരു ക്യാരക്റ്റർ പരിശോധിക്കുകയാണെങ്കിൽ അത് ഒരു ക്യാരക്റ്റർ വായിക്കുകയും അത് A അല്ലെങ്കിൽ E ആണോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ എക്സ്പ്രഷൻ ക്യാരക്റ്റർ A അല്ലെങ്കിൽ ക്യാരക്റ്റർ E എന്ന് എഴുതുന്നു പക്ഷേ ഒന്നിലധികം കണ്ടീഷൻ കവറേജ് നേടുന്നു ഇത് സാധ്യമാകില്ല കാരണം അവയിലൊന്നിൽ ഏറ്റവും മികച്ചത് ശരിയാകാം നമുക്ക് ട്രൂ ആക്കാൻൻ കഴിയില്ല ഇതിന് ട്രൂ ആണ് അതിനാൽ വേരിയബിളുകൾക്കിടയിലുള്ള ഡിപെൻഡൻസി കാരണം ചില നിബന്ധനകളുടെ സംയോജനം സാധ്യമാകില്ലെങ്കിലും ഞങ്ങളുടെ കവറേജിന് ചില കണ്ടിഷൻ മൂല്യങ്ങൾ സജ്ജമാക്കേണ്ടിവരുമെങ്കിലും ആ മൂല്യങ്ങൾ സെറ്റ് ചെയ്യാൻ കഴിയില്ല ഇത് കംപൈലറിന്റെ ഒരു ഷോർട്ട് സർക്യൂട്ട് മൂല്യനിർണ്ണയത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാക്കുന്നതിന് ഷോർട്ട് സർക്യൂട്ട് വിലയിരുത്തൽ കംപൈലർ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു എല്ലാ കംപൈലറുകളും ഒരു കണ്ടീഷണൽ എക്സ്പ്രെഷൻ വിലയിരുത്തുന്നുവെന്ന് അനുമാനിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഇപ്പോൾ കംപൈലറുകൾ ഷോർട്ട് സർക്യൂട്ട് മൂല്യനിർണ്ണയം നടത്തുന്ന ചില ഉദാഹരണങ്ങൾ നോക്കാം നമുക്ക് a30 ഉം b50 ഉം ഒരു കണ്ടീഷണൽ എക്സ്പ്രെഷൻ ആണെങ്കിൽ ആദ്യത്തേത് അത് വിലയിരുത്തുന്ന ഇടതുവശത്ത് നിന്ന് വിലയിരുത്തപ്പെടുന്നില്ലെന്നും ആദ്യത്തേത് ഫാൾസ് ആയി വിലയിരുത്തിയാൽ രണ്ടാമത്തെ കണ്ടിഷൻ നെ വിലയിരുത്തേണ്ടതില്ല അതിനാൽ രണ്ടാമത്തേതിന് ഞങ്ങൾ ട്രൂവോ ഫാൾസോ നൽകുന്നുണ്ടോ എന്നത് ശരിക്കും പ്രശ്നമല്ല കാരണം കംപൈലർ അത് പരിശോധിക്കുന്നില്ല അതുപോലെ കണ്ടീഷണൽ എക്സ്പ്രെഷൻ a 30 അല്ലെങ്കിൽ b50 ആണെങ്കിൽ ഇവിടെ മറ്റൊന്ന് ശരിയാണെന്ന് വിലയിരുത്തുന്നിടത്തോളം മറ്റൊന്ന് പരിശോധിച്ചിട്ടില്ലെങ്കിൽ ചില കംപൈലർ ഇടത് വശത്ത് നിന്ന് വിലയിരുത്താം ആദ്യത്തേത് ശരിയാണെന്ന് വിലയിരുത്തുന്നുവെന്ന് അവർ കണ്ടെത്തിയാൽ ആദ്യത്തെ ആറ്റോമിക് അവസ്ഥ ട്രൂവിനെ വിലയിരുത്തുന്നു രണ്ടാമത്തെ എക്സ്പ്രെഷൻ ശരിയാണോ തെറ്റാണോ എന്ന് കംപൈലർ പരിശോധിക്കില്ല അതിനാൽ ഞങ്ങളുടെ കവറേജിൽ ഞങ്ങളുടെ ക്രമീകരണം ശരിയോ തെറ്റോ ആണെങ്കിൽ ഈ കംപൈലറുമായി ഞങ്ങൾക്ക് വലിയ അർത്ഥമില്ല കാരണം അത് ഉപയോഗിക്കില്ല ഇപ്പോൾ ഒന്നിലധികം കണ്ടീഷൻ കവറേജിന്റെ മറ്റൊരു തരം നോക്കാം ഇത് ഒരു വലിയ പ്രശ്നമാണ് ഒന്നിലധികം കണ്ടീഷൻ കവറേജ് ഏറ്റവും ശക്തമാണെങ്കിലും ആവശ്യമായ ടെസ്റ്റ് കേസുകളുടെ എണ്ണം എക്സ്പോണൻഷ്യൽ ആണ് എന്നതാണ് പ്രശ്നം അതിനാൽ ഒരു ബ്രാഞ്ച് എക്സ്പ്രഷനിൽ നമുക്ക് n ആറ്റോമിക് എക്സ്പ്രഷനുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2n ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് N 10 ആണെങ്കിൽ ഞങ്ങൾക്ക് 1024 ടെസ്റ്റ് കേസുകൾ ആവശ്യമാണ് ഇത് വളരെ കൂടുതലാണ് നമുക്ക് 20 അല്ലെങ്കിൽ 30 ആറ്റോമിക് കണ്ടീഷണൽ എക്സ്പ്രെഷൻ ഒരു ബ്രാഞ്ച് എക്സ്പ്രഷനിൽ ദൃശ്യമാകുന്നുവെന്ന് സങ്കൽപ്പിക്കുക കൂടാതെ 20 അല്ലെങ്കിൽ 30 ആറ്റോമിക് അവസ്ഥകൾ വളരെ സാധാരണമായി കാണപ്പെടുന്ന നിരവധി ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഉദാഹരണത്തിന് വിവിധ പാരാമീറ്ററുകൾ അനുഭവപ്പെടുന്ന എംബെഡെഡ് കൺട്രോളർ ആപ്ലിക്കേഷനുകളിൽ ചില വേരിയബിളുകളെ ആശ്രയിച്ച് ചില വേരിയബിളുകളുടെ മൂല്യങ്ങൾ ചില പ്രവർത്തനങ്ങൾ പത്ത് പതിനഞ്ചും ഇരുപതും വേരിയബിളുകൾ ഉൾക്കൊള്ളുന്ന കണ്ടീഷണൽ എക്സ്പ്രെഷനുകൾ സ്വീകരിച്ചത് വളരെ സാധാരണമാണ് ഞങ്ങൾക്ക് ആ ആപ്ലിക്കേഷനുകൾ പരീക്ഷിക്കേണ്ടിവന്നാൽ ഒരു എക്സ്പ്രഷൻ പരിശോധിക്കുന്നതിന് ഞങ്ങൾക്ക് ഒന്നിലധികം കണ്ടീഷൻ കവറേജ് 220 ടെസ്റ്റ് കേസുകൾ അല്ലെങ്കിൽ 230 ടെസ്റ്റ് കേസുകൾ ആവശ്യമാണെങ്കിൽ ഒരു പ്രോഗ്രാമിൽ അത്തരം ഡസൻ കണക്കിന് എക്സ്പ്രഷനുകൾ ഉണ്ടാകാം അതിനാൽ ഒരു കണ്ടീഷണൽ എക്സ്പ്രെഷനിൽ നമുക്ക് 2 അല്ലെങ്കിൽ 3 ആറ്റോമിക് അവസ്ഥകൾ ഉള്ളിടത്തോളം ഒന്നിലധികം കണ്ടീഷൻ കവറേജ് അർത്ഥവത്താണ് ഇപ്പോൾ ഞങ്ങൾ എന്തുചെയ്യുന്നു ദശലക്ഷക്കണക്കിന് ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയാത്ത ടെസ്റ്റ് കേസുകളുടെ എണ്ണം കുറവുള്ള ഒന്നിലധികം കണ്ടീഷൻ കവറേജിന്റെ സമഗ്രത നമുക്ക് എങ്ങനെ നേടാനാകും ആറ്റോമിക് എക്സ്പ്രഷനുകളുടെ എണ്ണം പ്രായോഗികമല്ല അതിനാൽ ആ പ്രചോദനത്തോടെ ഞങ്ങൾ പരിഷ്ക്കരിച്ച കണ്ടിഷൻ ഡിസിഷൻ കവറേജ് നോക്കും ഇപ്പോൾ ഇത് മറ്റൊരു ഉദാഹരണമാണ് ഇവിടെ നമുക്ക് 5 ആറ്റോമിക് അവസ്ഥകളുണ്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് മൂല്യനിർണ്ണയത്തോടെ ഞങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വിലയിരുത്തലുകൾ ഡാഷായി എഴുതി അതിനാൽ ഡാഷ് എന്ന് എഴുതിയ ആറ്റോമിക് എക്സ്പ്രഷന്റെ മൂല്യം കണക്കിലെടുക്കാതെ കംപൈലർ വിലയിരുത്തും ഇത് ശ്രദ്ധിക്കരുത് ഇത് പരിഗണിക്കില്ല അതിനാൽ സാധാരണയായി ഈ എക്സ്പ്രഷനായി ഒന്നിലധികം കണ്ടീഷൻ കവറേജ് നേടുന്നതിന് 32 ടെസ്റ്റ് കേസുകളായ 25 ആവശ്യമാണ് എന്നാൽ ഷോർട്ട് സർക്യൂട്ട് വിലയിരുത്തലിനൊപ്പം ഞങ്ങൾക്ക് 13 ടെസ്റ്റ് കേസുകൾ മാത്രമേ ആവശ്യമുള്ളൂ അതിനാൽ മറ്റ് 19 ടെസ്റ്റ് കേസുകൾ യഥാർത്ഥത്തിൽ അനാവശ്യമാണ് ആ ടെസ്റ്റ് കേസുകൾ മറ്റ് 19 ടെസ്റ്റ് കേസുകൾ ഞങ്ങൾ എഴുതിയാലും അവ കാര്യമില്ല ഷോർട്ട് സർക്യൂട്ട് മൂല്യനിർണ്ണയം കാരണം ഞങ്ങൾക്ക് അത്തരം ടെസ്റ്റ് കേസുകൾ ഉണ്ടായിരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടതില്ല ഷോർട്ട് സർക്യൂട്ട് വിലയിരുത്തലിന്റെ ഫലത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇത് അതിനാൽ കംപൈലർ നടത്തിയ ഷോർട്ട് സർക്യൂട്ട് വിലയിരുത്തൽ ടെസ്റ്റ് കേസുകളുടെ എണ്ണം കുറഞ്ഞ സംഖ്യയായി കുറയ്ക്കുന്നു പക്ഷേ എല്ലായ്പ്പോഴും അല്ല നമുക്കറിയില്ല ഒരു നിർദ്ദിഷ്ട കംപൈലറിനുള്ള ഷോർട്ട് സർക്യൂട്ട് വിലയിരുത്തൽ എന്താണ് ഞങ്ങളുടെ ഊഹത്തെ സാമാന്യവൽക്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം അവർ ഉപയോഗിക്കുന്ന നിർദ്ദിഷ്ട ഷോർട്ട് സർക്യൂട്ട് ടെക്നിക്കുകൾ കംപൈലറിൽ നിന്ന് കംപൈലറിൽ വ്യത്യാസപ്പെടുന്നു ഇപ്പോൾ ഈ പ്രചോദനത്തോടെ കണ്ടീഷണൽ എക്സ്പ്രെഷനുകളിൽ നിരവധി ആറ്റോമിക് അവസ്ഥകൾ 20 30 മുതലായവയുടെ ക്രമത്തിൽ വലുതായിരിക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ ഉണ്ട് ഞങ്ങൾക്ക് ഒന്നിലധികം കണ്ടീഷൻ കവറേജ് ഉപയോഗിക്കാൻ കഴിയില്ല പക്ഷേ ടെസ്റ്റ് കണ്ടിഷനുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് ഒന്നിലധികം കണ്ടീഷൻ കവറേജ് പോലെ തെറ്റ് കണ്ടെത്താനുള്ള കഴിവ് നമുക്ക് നേടാൻ കഴിയുമോ അതിനാൽ അത് പരിഷ്ക്കരിച്ച കണ്ടിഷൻ ഡിസിഷൻ കവറേജ് ആണ് ഇപ്പോൾ ഇവിടെ പ്രധാന ആശയങ്ങൾ നോക്കാം ഇത് ഒരു പ്രധാന പരീക്ഷണ സാങ്കേതികതയായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ചും സുരക്ഷാ നിർണായക സോഫ്റ്റ്വെയറിന് പല മാനദണ്ഡങ്ങൾക്കും MCഎംസി DCഡിസി കവറേജ് ആവശ്യമാണ് കണ്ടിഷന്റ്റെ പ്രധാന കോമ്പിനേഷനുകൾ പരീക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇവിടെ പ്രധാന ആശയം കണ്ടിഷന്റ്റെ പ്രധാനപ്പെട്ട കോമ്പിനേഷനുകൾ പരീക്ഷിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ വ്യവസ്ഥകളുടെയും കോമ്പിനേഷനുകൾ പരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രധാനമായി ഞങ്ങൾ അർത്ഥമാക്കുന്നത് ഓരോ അടിസ്ഥാന കണ്ടിഷൻ ആണ് അതിനാൽ ഓരോ ആറ്റോമിക് അവസ്ഥയും ബ്രാഞ്ചിന്റെ ഫലത്തെ മറ്റ് വ്യവസ്ഥകളിൽ നിന്ന് സ്വതന്ത്രമായി നിർണ്ണയിക്കുന്നു അതിനാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതൊരു ആറ്റോമിക് അവസ്ഥയ്ക്കും ഞങ്ങൾ മറ്റ് വ്യവസ്ഥകൾ സ്ഥിരമായി നിലനിർത്തുകയും ആറ്റോമിക് അവസ്ഥയെ ശരിയും തെറ്റും ആക്കുകയും ബ്രാഞ്ച് ഫലം ശരിയും തെറ്റും ആയി മാറുകയും വേണം എന്നതാണ് അതിനാൽ ഓരോ അടിസ്ഥാന അവസ്ഥയ്ക്കും അത്തരം ടെസ്റ്റ് കേസുകൾ ഞങ്ങൾക്ക് ആവശ്യമാണ് അതിനാൽ MCDC കവറേജ് നേടുന്നതിന് കൂടുതൽ വ്യക്തമായ രീതിയിൽ പറയാൻ ഞങ്ങൾക്ക് മൂന്ന് മൂന്ന് ആവശ്യകതകളുണ്ട് ആദ്യത്തേത് ഓരോ അടിസ്ഥാന വ്യവസ്ഥയും ശരിയും തെറ്റും ആക്കണം ഇത് ഓരോ അടിസ്ഥാന വ്യവസ്ഥയും ശരിയായി നേടേണ്ട കണ്ടീഷൻ കവറേജ് പോലെയാണ് അടിസ്ഥാന കണ്ടിഷൻ ട്രൂ ഉം ഫാൾസ് ഉം നേടണം കൂടാതെ ബാക്കി എല്ലാ കണ്ടിഷനുകളുടെ മൂല്യങ്ങളും നേടണം നമ്മൾ ഒരു ആറ്റോമിക് അവസ്ഥയിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഈ അടിസ്ഥാന വ്യവസ്ഥ ശരിയും തെറ്റും വിലയിരുത്തുമ്പോൾ നാം മറ്റെല്ലാ ആറ്റോമിക് അവസ്ഥകളുടെയും മൂല്യങ്ങൾ തുല്യമായിരിക്കണം കൂടാതെ ഇതിന് ശരിയും തെറ്റും വിലയിരുത്തുന്നതിന് നമുക്ക് ആറ്റോമിക് കണ്ടിഷന്റ്റെ കോമ്പൌണ്ട് കണ്ടിഷൻ മൊത്തത്തിൽ ആവശ്യമാണ് ഇപ്പോൾ ഇത് കൂടുതൽ ശ്രദ്ധാപൂർവ്വം നോക്കാം കൂടാതെ നിരവധി ഉദാഹരണങ്ങളും നോക്കാം അതിനുമുമ്പ് ഞങ്ങൾ ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത് കണ്ടീഷൻ ഡിസിഷൻ കവറേജിനേക്കാൾ ശക്തമായ ഒരു കവറേജാണ് മൾട്ടിപ്പിൾ കണ്ടീഷൻ ഡിസിഷൻ കവറേജ് കൂടാതെ കണ്ടീഷൻ ഡിസിഷൻ കവറേജ് ഡിസിഷൻ കവറേജിനേക്കാൾ ശക്തമായ പരിശോധനയാണെന്നും കണ്ടീഷൻ കവറേജും ഡിസിഷൻ കവറേജും സ്റ്റേറ്റ്മെന്റ് കവറേജിനേക്കാൾ ശക്തമായ പരിശോധനയാണ് ബ്രാഞ്ച് കവറേജ് കൂടാതെ ഇവിടെ കാണുക MC DC അവസ്ഥ ഡിസിഷൻ കവറേജിനേക്കാൾ ശക്തമാണ് അതിനാൽ ഞങ്ങൾ ഇത് ശരിക്കും അർത്ഥമാക്കുന്നത് MCDC പരിശോധന നടത്തുകയാണെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥ പരിശോധനയെക്കുറിച്ച് ഞങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നതാണ് മൾട്ടിപ്പിൾ കണ്ടീഷൻ കവറേജ് ഒരു ശക്തമായ ടെസ്റ്റിംഗ് സാങ്കേതികതയാണെങ്കിലും ഇത് ഒരു ശക്തമായ പരിശോധന ആവശ്യകതയാണെന്ന് ഞങ്ങൾ ഇതിനകം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് പ്രായോഗികമല്ല ആറ്റോമിക് അവസ്ഥകളുടെ എണ്ണത്തിൽ എക്സ്പോണൻഷ്യൽ ആയ നിരവധി ടെസ്റ്റ് കേസുകൾ ഉണ്ടാകും MCDC എന്നാൽ പരിഷ്കരിച്ച കണ്ടീഷൻ ഡിസിഷൻ കവറേജാണ് കൂടാതെ പരീക്ഷണാത്മകമായി ബഗ് കണ്ടെത്തൽ ഫലപ്രാപ്തി ഒന്നിലധികം കണ്ടീഷൻ കവറേജിനേക്കാൾ കൂടുതലാണെന്ന് കണ്ടെത്തി പക്ഷേ ഒന്നിലധികം അവസ്ഥകൾ നേടുന്നതിന് ആവശ്യമായ ടെസ്റ്റ് കേസുകളുടെ എണ്ണം ഈ പരിഷ്ക്കരിച്ച അവസ്ഥ ഡിസിഷൻ കവറേജ് MCDC എന്നത് ആറ്റോമിക് അവസ്ഥകളുടെ എണ്ണത്തിൽ ലീനിയർ ആണ് എന്താണ് MCDC എന്ന് നോക്കാം ഇത് പരിഷ്കരിച്ച അവസ്ഥ ഡിസിഷൻ കവറേജിനെ സൂചിപ്പിക്കുന്നു ഇത് ഒരു കണ്ടീഷൻ കവറേജ് സാങ്കേതികത കൂടിയാണ് MCDC യിലെ പ്രധാന ആശയം ഓരോ നിബന്ധനയും ഒരു തീരുമാനത്തിന്റെ ഫലത്തെ സ്വതന്ത്രമായി ബാധിക്കുമെന്ന് കാണിക്കുന്നു എന്നതാണ് അതിനാൽ കണ്ടീഷണൽ എക്സ്പ്രെഷനിലെ ഓരോ ആറ്റോമിക് അവസ്ഥയും തീരുമാനത്തിന്റെ ഫലത്തെ സ്വതന്ത്രമായി ബാധിക്കുന്ന തരത്തിലായിരിക്കണം ടെസ്റ്റ് കേസുകൾ ഒരു ആറ്റോമിക് അവസ്ഥ ശരിയാകുമ്പോൾ തീരുമാനം ശരിയാകും ആറ്റോമിക് അവസ്ഥ തെറ്റായിരിക്കുമ്പോൾ അത് തെറ്റായിരിക്കും അതിനാൽ ആറ്റോമിക് അവസ്ഥ ശരിയിൽ നിന്ന് തെറ്റായി മാറുമ്പോൾ തീരുമാനം മാറുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും ഇവിടെ ആവശ്യമായ ടെസ്റ്റ് കേസുകളുടെ എണ്ണം ആറ്റോമിക് അവസ്ഥകളുടെ എണ്ണത്തേക്കാൾ ഇരട്ടിയെങ്കിലും ആയിരിക്കും അതിനാൽ ഇത് 2n പോലെയല്ല അത് 2n അല്ലെങ്കിൽ അതിനടുത്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും ആറ്റോമിക് അവസ്ഥകളുടെ എണ്ണത്തിൽ ഇത് ലീനിയർ ആയിരിക്കും അതിനാൽ ഞങ്ങൾ ഇവിടെ നിർത്തി MC DC പരിശോധനയെക്കുറിച്ചുള്ള ചർച്ച അടുത്ത സെഷനിൽ പുനരാരംഭിക്കും